നമുക്ക് ഒരു ഡാറ്റ സ്ട്രക്ച്ചർ നോക്കാം ജോബ് ഷെഡ്യൂളർമാർ ഉൾപ്പെടുന്ന ഒരു പ്രശ്നം ജോബ് ഷെഡ്യൂളർ മുൻഗണന അനുസരിച്ച് തീർപ്പുകൽപ്പിക്കാത്ത ജോലികളുടെ ഒരു ലിസ്റ്റ് പരിപാലിക്കുന്നു ഇപ്പോൾ ഏത് സമയത്തും നിർവ്വഹിക്കുന്നതിനായി ജോബ് ഷെഡ്യൂളർ അടുത്ത ജോലി തിരഞ്ഞെടുക്കേണ്ടതുണ്ട് പ്രോസസർ ഫ്രീ ആകുമ്പോഴെല്ലാം അത് ജോലി തിരഞ്ഞെടുക്കുന്നു ആദ്യം വന്ന ജോലിയല്ല പട്ടികയിൽ പരമാവധി മുൻഗണനയുള്ളതാണ് ആദ്യം ഷെഡ്യൂൾ ചെയ്യുന്നത് പുതിയ ജോലികൾ പട്ടികയിൽ ചേരുന്നു ഓരോന്നിനും അതിന്റേതായ മുൻഗണനയുണ്ട് അവയുടെ മുൻഗണന അനുസരിച്ച് അതിനു മുമ്പ് വന്ന മറ്റ് ജോലികളേക്കാൾ അവക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും തീർപ്പുകൽപ്പിക്കാത്ത ജോലികളുടെ പട്ടികയും അവയുടെ മുൻഗണനകളും ഷെഡ്യൂളർ എങ്ങനെ നിലനിർത്തണം എന്നതാണ് നമ്മുടെ ചോദ്യം അടുത്ത ഷെഡ്യൂൾ ചെയ്യുന്നതിന് ഉയർന്ന മുൻഗണനയുള്ളവയെ എല്ലായ്പ്പോഴും വളരെ വേഗത്തിൽ പുറത്തെടുക്കാൻ എങ്ങിനെ കഴിയും ഇത് ഒരു ക്യൂ പോലെയാണ് എന്നാൽ ഇനങ്ങൾ എത്തുന്നതിന് അനുസരിച്ചല്ല മറ്റ് സ്വഭാവ സവിശേഷതകളെ അടിസ്ഥാനമാക്കി മുൻഗണനയുള്ള ഒരു ക്യൂ ആണിത് ഒരു സാധാരണ ക്യൂ ഒരു ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഒബ്ജക്റ്റാണ് ആദ്യം എത്തുന്നവ ആദ്യം പുറപ്പെടും ഒരു പ്രയോറിറ്റി ക്യൂവിൽ അവർ അവരുടെ മുൻഗണന അനുസരിച്ച് പുറപ്പെടുന്നു പ്രയോറിറ്റി ക്യൂയുമായി ബന്ധപ്പെട്ട രണ്ട് പ്രവർത്തനങ്ങളുണ്ട് ഒന്ന് ഡിലീറ്റ് മാക്സ് ഡിലീറ്റ് ക്യൂവിൽ നമ്മൾ ക്യൂവിന്റെ മുൻപിൽ ഉള്ള എലമെന്റ് എടുക്കുമെന്ന് പറഞ്ഞു ഡിലീറ്റ് മാക്സിൽ നമ്മൾ ക്യൂ നോക്കി ഉയർന്ന മുൻഗണന നോക്കി ജോലി നീക്കം ചെയ്യണം തീർച്ചയായും രണ്ട് വ്യത്യസ്ത ജോലികളുടെ മുൻഗണന സമാനമായിരിക്കാം ഈ സാഹചര്യത്തിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാനാകും ക്യൂവിലേക്ക് ചേർക്കുക എന്ന പ്രവർത്തനത്തെ നമ്മൾ സാധാരണയായി ഇൻസെർട്ട് എന്ന് വിളിക്കുന്നു ഇൻസെർട്ട് എന്നാൽ നമ്മൾ പട്ടികയിൽ ഒരു പുതിയ ജോലി ചേർക്കുന്നു ഓരോ ജോലിയും ചേർക്കുമ്പോൾ അത് സ്വന്തം മുൻഗണന അനുസരിച്ച് വരുന്നു നമ്മൾ ഇതിനകം പഠിച്ച ലീനിയർ സ്ട്രക്ച്ചർ അടിസ്ഥാനമാക്കി ഈ ജോലികൾ ഒരു ലിസ്റ്റ് ആയി നിലനിർത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം ഇപ്പോൾ ക്യൂവിലേക്ക് എന്തെങ്കിലും ചേർക്കുമ്പോൾ ഇത് ഒരു തരംതിരിക്കാത്ത ലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് അത് ലിസ്റ്റിൽ ഏത് സ്ഥാനത്തും കൂട്ടിച്ചേർക്കാം ഇതിന് സ്ഥിരമായ സമയം ആവശ്യമാണ് എന്നിരുന്നാലും ഒരു ഡിലീറ്റ് മാക്സ് ചെയ്യുന്നതിന് നമ്മൾ ലിസ്റ്റ് സ്കാൻ ചെയ്ത് പരമാവധി എലമെന്റിനായി തിരയണം കൂടാതെ നമ്മൾ ഒരു ക്രമീകരിക്കാത്ത ലിസ്റ്റിൽ കണ്ടതുപോലെ ലിസ്റ്റിലെ പരമാവധി ഘടകം കണ്ടെത്താൻ നമുക്ക് സമയമെടുക്കും കാരണം ലിസ്റ്റ് എല്ലാം സ്കാൻ ചെയ്യണം ലിസ്റ്റ് അടുക്കി വയ്ക്കുക എന്നതാണ് മറ്റൊരു ഓപ്ഷൻ ഇത് ഡിലീറ്റ് മാക്സിനെ സഹായിക്കുന്നു ഉദാഹരണത്തിന് നമ്മൾ അത് അവരോഹണ ക്രമത്തിൽ അടുക്കുകയാണെങ്കിൽ ലിസ്റ്റിന്റെ ആദ്യ ഘടകം എല്ലായ്പ്പോഴും ഏറ്റവും വലിയ ഘടകമാണ് എന്നിരുന്നാലും നമ്മൾ ഇൻസെർട്ടിനാണ് ഇവിടെ പ്രാധാന്യം കാരണം അടുക്കിയ ക്രമം നിലനിർത്തുന്നതിന് നമ്മൾ ഘടകം ശരിയായ സ്ഥാനത്ത് ചേർക്കണം ഇൻസെർഷൻ സോർട്ടിൽ കണ്ടതു പോലെ അതിന് ലീനിയർ സമയമെടുക്കും ഒരു ട്രേഡ് ഓഫ് എന്ന നിലയിൽ നമ്മൾ ഒന്നുകിൽ ലീനിയർ ടൈം ഡിലീറ്റ് മാക്സിന് എടുക്കും അല്ലെങ്കിൽ ഇൻസെർട്ടിന് എടുക്കും N ജോലികൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വഴിയിൽ പ്രവേശിക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ ക്യുവിൽ നിന്ന് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഈ n ജോലികൾ പ്രോസസ്സ് ചെയ്യുന്നതിന് n സ്ക്വയർഡ് സമയം ചെലവഴിക്കുന്നു ഡാറ്റയെ ഒരു വൺ ഡൈമൻഷണൽസ്ട്രക്ച്ചറിൽ സൂക്ഷിക്കുന്നതിനുള്ള അടിസ്ഥാന പരിമിതിയാണിത് നമുക്ക് ടു ഡൈമൻഷണൽ സ്ട്രക്ച്ചർ നോക്കാം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഏറ്റവും അടിസ്ഥാന ടു ഡൈമൻഷണൽ സ്ട്രക്ച്ചർ ഒരു ബൈനറി ട്രീ ആണ് ഒരു ബൈനറി ട്രീയിൽ നോഡുകൾ അടങ്ങിയിരിക്കുന്നു ഓരോ നോഡിനും അതിൽ ഒരു മൂല്യമുണ്ട് അതിൽ ഒരു ഇടത് അല്ലെങ്കിൽ വലത് ഭാഗത്ത് ചൈൽഡ് ഉണ്ടായിരിക്കാം ട്രീയുടെ മുകൾ ഭാഗത്തുള്ള റൂട്ടിലാണ് നമ്മൾ ആരംഭിക്കുന്നത് തുടർന്ന് ഓരോ നോഡിനും 1 അല്ലെങ്കിൽ 2 ചൈൽഡ് ഉണ്ടാകും ചൈൽഡ് ഇല്ലാത്ത ഒരു നോഡ് ലീഫ് ആണ് ചൈൽഡിന്റെ മുകളിൽ ഉള്ള നോഡ് പാരന്റ് നോഡ് ആണ് ഇത് ലെഫ്റ്റ് ചൈൽഡ് ഇത് റൈറ്റ് ചൈൽഡ് അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം ഒരു പ്രയോറിറ്റി ക്യുവിനെ ഒരു ബൈനറി ട്രീ ആയി മാറ്റുക എന്നതാണ് ഇതിനെ ഹീപ്പ് എന്ന് വിളിക്കും ട്രീ ബാലൻസ്ഡ്ആണ് ഓരോ പോയിന്റിലും ഏകദേശം ഇടത് വലത് വശങ്ങൾ ഏതാണ്ട് ഒരേ വലുപ്പമുള്ളതാണെകിൽ ട്രീ ബാലൻസ്ഡ്ആണ് ഇക്കാരണത്താൽ ഒരു ബാലൻസ്ഡ്ട്രീയിൽ നമുക്ക് n നോഡുകൾ ഉണ്ടെങ്കിൽ ട്രീയുടെ ഉയരം ലോഗരിഥമിക് ആയിരിക്കും കാരണം ഓരോ ലെവലിനും ഉയരം ഇരട്ടിയാകുന്നുവെന്നും അതിന്റെ ഫലമായി നമുക്ക് ലോഗ് n ലെവലിൽ n നോഡുകൾ ഘടിപ്പിക്കാമെന്നും ഓർക്കുക അത് സന്തുലിതമാണെങ്കിൽ അതിന്റെ ഉയരം ലോഗ് n ആയതിനാൽഇൻസെർട്ട് ഡിലീറ്റ് മാക്സ് എന്നിവ ലോഗ് n സമയത്തിൽ ചെയ്യാം ഇതിനർത്ഥം ക്യൂവിൽ നിന്ന് n ഘടകങ്ങൾ ചേർക്കുകയും നീക്കംചെയ്യേണ്ടതായും വന്നാൽ മൊത്തത്തിൽ നമ്മൾ n സ്ക്വയറിൽ നിന്ന് n ലോഗ് n ലേക്ക് പോകും കൂടാതെ ഒരു ഹീപ്പിനെക്കുറിച്ചുള്ള മറ്റൊരു മികച്ച സവിശേഷത നമുക്ക് മുൻകൂട്ടി n ശരിയാക്കേണ്ടതില്ല എന്നതാണ് ഹീപ്പ് വളരുകയും ചുരുങ്ങുകയും ചെയ്യുമ്പോൾ ഇത് പ്രവർത്തിക്കും അതിനാൽ n എന്താണെന്ന് അറിയേണ്ടതില്ല എന്താണ് ഒരു ഹീപ്പ് രണ്ട് ഗുണങ്ങളുള്ള ഒരു ബൈനറി ട്രീയാണ് ഹീപ്പ് ആദ്യ പ്രോപ്പർട്ടി സ്ട്രക്ച്ചർ ആണ് ട്രീയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൂല്യങ്ങൾ എന്താണ് ഇത് ലീഫ് ആണ് ഒരു ബൈനറി ട്രീയിലെ നോഡുകൾക്ക് 0 കുട്ടികളോ 1 കുട്ടികളോ 2 കുട്ടികളോ ഉണ്ടായിരിക്കാമെന്ന് ഓർമ്മിക്കുക നമുക്ക് പൊതുവെ വളരെ അസന്തുലിതമായ ഒരു സ്ട്രക്ച്ചർ ഉണ്ടായിരിക്കാം ഒരു ഹീപ്പിന് റെഗുലർ സ്ട്രക്ച്ചർ ഉണ്ട് ഹീപ്പ് ഉള്ളപ്പോൾ അതിൽ നമുക്ക് ഒരു ബൈനറി ട്രീ ഉണ്ട് അതിൽ ഓരോ ലെവലും മുകളിൽ നിന്ന് താഴേക്ക് ഇടത്തുനിന്ന് വലത്തോട്ട് പൂരിപ്പിക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഏത് ഘട്ടത്തിലും ഒരു ഹീപ്പ് നിരവധി പൂരിപ്പിച്ച ലെവലുകൾ ഉൾക്കൊള്ളുന്നു തുടർന്ന് താഴത്തെ നിലയിൽ നമുക്ക് ഇടത്തുനിന്ന് വലത്തോട്ട് നോഡുകളും ഉണ്ട് ചിലപ്പോൾ പൂരിപ്പിക്കാത്ത ചില നോഡുകളും ഉണ്ട് ഹീപ്പിന്റെ മറ്റ് പ്രോപ്പർട്ടി ആദ്യത്തെ പ്രോപ്പർട്ടി സ്ട്രക്ച്ചർ ആണ് അത് ഈ ഹീപ്പിൽ മൂല്യങ്ങൾ എങ്ങനെ കാണപ്പെടുന്നുവെന്നു പറയുന്നു ഈ നോഡിൽ ഉദാഹരണത്തിന് ഈ ചിത്രത്തിൽ നീല നോഡുകൾ മൂല്യങ്ങളുള്ളവയാണ് കൂടാതെ ശൂന്യമായ നോഡുകൾ ചുവടെ ഓപ്പൺ സർക്കിളുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നു ഹീപ്പിനെക്കുറിച്ചുള്ള രണ്ടാമത്തെ പ്രോപ്പർട്ടി മൂല്യങ്ങളാണ് ഹീപ്പ് പ്രോപ്പർട്ടി ഈ സാഹചര്യത്തിൽ നമ്മൾ മാക്സ് ഹീപ്പ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നു കാരണം പരമാവധി മൂല്യങ്ങളിൽ ആണ് നമുക്ക് താൽപ്പര്യം ഓരോ മൂല്യവും അതിന്റെ 2 കുട്ടികളുടെ മൂല്യത്തേക്കാൾ വലുതാണെന്ന് പറയുന്നു ഓരോ നോഡിലും നിങ്ങൾ മൂല്യം നോക്കുകയും ഇടത് കുട്ടിയുടെയും വലതു വശത്തെ കുട്ടിയുടെയും മൂല്യം നോക്കുകയും ചെയ്താൽ പേരന്റിന് രണ്ട് കുട്ടികളേക്കാളും വലിയ മൂല്യമുണ്ടാകും ഇത് 4 നോഡ് ഹീപ് ആണ് നാലു നോഡ് ഉള്ളത് കൊണ്ട് ആദ്യം റൂട്ട് പൂരിപ്പിക്കുക ഒടുവിൽ രണ്ടാം നിലയിൽ ഇടതു വശത്തെ ഒരു നോഡ് മാത്രമേ ഉള്ളു ഇവിടെ വാല്യൂസ് ശരിയായ ഓർഡർ ആണ് 24 എന്നത് 117 നേക്കാൾ വലുതാണ് 11 ഉം അതിന്റെ ഏക കുട്ടിയായ 10 നെക്കാൾ വലുതാണ് 7 ന് കുട്ടികളില്ല അതിനാൽ നിയന്ത്രണങ്ങളൊന്നുമില്ല താഴത്തെ നില നിറഞ്ഞിരിക്കുന്ന മറ്റൊരു ഉദാഹരണം ഇതാണ് ഇവിടെ നമുക്ക് 7 നോഡുകളുണ്ട് ഓരോ ഘട്ടത്തിലും 11 എന്നത് 105 നേക്കാൾ വലുതാണെന്നും 7 65 എന്നിവയേക്കാൾ വലുതാണെന്നും നമ്മൾ കാണുന്നു നമുക്ക് വാല്യൂ പ്രോപ്പർട്ടി മാക്സ് ഹീപ്പ് പ്രോപ്പർട്ടി ഉണ്ട് കൂടാതെ സ്ട്രക്ച്ചർ പ്രോപ്പർട്ടി ഉണ്ട് സ്ട്രക്ച്ചർ പരമായി ഒരു ഹീപ്പ് അല്ലാത്ത ഒരു ഉദാഹരണം ഇതാണ് കാരണം ഇത് ഒരു ഹീപ്പ് ആണെങ്കിൽ അത് മുകളിൽ നിന്ന് താഴേക്ക് ഇടത്തുനിന്ന് വലത്തോട്ട് നിറയ്ക്കണം ഇവിടെ വലതു വശത്തു ഒരു കുട്ടിയെ ചേർക്കുന്നതിന് മുമ്പ് 7 ന്റെ ഇടതുവശത്ത് ഒരു നോഡ് ഉണ്ടായിരിക്കണം അതിനാൽ ഇത് ഒരു ഹീപ്പ് അല്ല അതുപോലെ 7ന്റെ വലതു വശത്തെ നോഡ് പൂരിപ്പിക്കുന്നതിനു മുമ്പ് ഇവിടെ നോഡ് 8 ചേർത്തു അത് പാടില്ല അങ്ങനെ ഇവിടെ ഇടത്തുനിന്ന് വലത്തോട്ട് മുകളിൽ നിന്ന് താഴെ വരെ വീണ്ടും ശരിയായി ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇത് ഒരു ഹീപ്പ് അല്ല ഈ പ്രത്യേക ട്രീ മുകളിൽ നിന്ന് താഴേക്ക് നിറഞ്ഞിരിക്കുന്നു ഇത് ഒരു ഹീപ്പിന്റെ സ്ട്രക്ച്ചർ ശരിയായ അർത്ഥത്തിൽ തൃപ്തിപ്പെടുത്തുന്നു പക്ഷേ ഇവിടെ നമുക്ക് ഹീപ്പ് പ്രോപ്പർട്ടിയുടെ ലംഘനമുണ്ട് കാരണം 7 ന്റെ ചൈൽഡ് 8 ആണ് അത് 7 നേക്കാൾ വലുതാണ് ഹീപ്പ് പ്രോപ്പർട്ടി നിലനിർത്തിക്കൊണ്ടുതന്നെ ഒരു ഹീപ്പിലേക്ക് ഒരു മൂല്യം ചേർക്കുക എന്നതാണ് നമ്മുടെ ആദ്യത്തെ ജോലി ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം പുതിയ നോഡ് എവിടെ വയ്ക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ മറ്റ് മാർഗമില്ല ഹീപ്പ് നോഡുകൾ മുകളിൽ നിന്ന് താഴേക്കും ഇടത്തുനിന്ന് വലത്തോട്ടും നിർമ്മിച്ചതാണെന്ന് ഓർമ്മിക്കുക നമുക്ക് 12 ചേർക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അത് 10 ന് താഴെ ഇടത്തേക്ക് വരണം മുമ്പത്തെ ലെവൽ നിറഞ്ഞിരിക്കുന്നതിനാൽ ഒരു പുതിയ ലെവൽ ആരംഭിക്കേണ്ടതുണ്ട് ഇത് ഹീപ്പ് പ്രോപ്പർട്ടി തൃപ്തിപ്പെടുത്തുന്നില്ല എന്നതാണ് പ്രശ്നം ഈ സാഹചര്യത്തിൽ 12 അതിന്റെ രക്ഷകർത്താവിനേക്കാൾ വലുതാണ് ഇത് ഇപ്പോൾ സ്ട്രക്ച്ചർ പരമായി ശരിയാണെങ്കിലും ഇതിന് ശരിയായ വാല്യൂ ഡിസ്ട്രിബ്യുഷൻ ഇല്ല നമ്മൾ ഏതെങ്കിലും വിധത്തിൽ ഹീപ്പ് പ്രോപ്പർട്ടി പുനസ്ഥാപിക്കണം ഇതാണ് നമ്മൾ ആദ്യം ചെയ്യുക ഒരു നോഡ് സൃഷ്ടിക്കുക നമ്മൾ ആ നോഡിലേക്ക് പുതിയ മൂല്യം ഇടുന്നു അതിനുശേഷം നമ്മൾ എവിടെയാണ് പേരെന്റിന്റെ സംബന്ധിച്ച പ്രോപ്പർട്ടി ലംഘിച്ചത് എന്ന് നോക്കുന്നു 12 ഉം 10 ഉം ശരിയായി ഓർഡർ ചെയ്തിട്ടില്ലെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നു നമ്മൾ അവ കൈമാറ്റം ചെയ്യുന്നു ഇപ്പോൾ ഇത് ഒരു പുതിയ നോഡാണ് നാം അത് ബന്ധപ്പെട്ട പേരെന്റിന്റെ നില അനുസരിച്ചാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് നമ്മൾ നോക്കുകയും അത് അങ്ങനെയല്ലെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു വീണ്ടും ഇവ കൈമാറ്റം ചെയ്യുന്നു ഇപ്പോൾ ശ്രദ്ധിക്കുക 11 ഇതിനകം 5 നെക്കാൾ വലുതായതിനാൽ 12 5 നെക്കാൾ വലുതായി തുടരും നമുക്ക് ലഭിച്ച സ്ഥലത്ത് നിന്ന് താഴേക്കു ഒന്നും പരിശോധിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മുകളിലേക്ക് നോക്കണം ഇപ്പോൾ മുകളിൽ ഇപ്പോഴും ഒരു പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ 12 എന്നത് 24 നെക്കാൾ ചെറുതാണ് ഒരു പ്രശ്നവുമില്ല നമ്മൾ നിർത്തുന്നു നമുക്ക് മറ്റൊരു നോഡ് ചേർക്കാം നമ്മൾ ഇപ്പോൾ സൃഷ്ടിച്ച ഹീപ്പിലേക്ക് 33 ചേർക്കുന്നുവെന്ന് കരുതുക 33 വീണ്ടും ഈ ഘട്ടത്തിൽ ഒരു പുതിയ നോഡ് സൃഷ്ടിക്കുന്നു ഇപ്പോൾ 11 നെക്കാൾ 33 വലുതായിരിക്കുമ്പോൾ നമുക്ക് മുകളിലേക്ക് പോയി അത് സ്വാപ്പ് ചെയ്യണം പിന്നീട് 33 ഉം അതിന്റെ രക്ഷകർത്താവ് 12 ഉം താരതമ്യം ചെയ്യുന്നു 33 12 നെക്കാൾ വലുതാണെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നു നമ്മൾ ഇത് വീണ്ടും സ്വാപ്പ് ചെയ്തതിനുശേഷം റൂട്ട് നോക്കുന്നു ഈ സാഹചര്യത്തിൽ 24 ആണ് നമ്മൾ 33 24നേക്കാൾ വലുതാണ് എന്നു കണ്ടെത്തുന്നു നമ്മൾ വീണ്ടും സ്വാപ്പ് ചെയ്യുന്നു ഇപ്പോൾ 33നു പേരെന്റ്സ് ഒന്നുമില്ല അത് തീർച്ചയായും അതിന്റെ 2 കുട്ടികളേക്കാൾ വലുതാണ് അതുകൊണ്ടു നമുക്ക് നിർത്താൻ കഴിയും ഇൻസെർട്ട് ചെയ്യാൻ എത്ര സമയമെടുക്കും ഓരോ തവണയും നമ്മൾ ഒരു നോഡ് ചേർക്കുമ്പോൾ നമ്മൾ അതിന്റെ രക്ഷകർത്താവുമായി പരിശോധിക്കണം സ്വാപ്പ് ചെയ്യണം അതിന്റെ രക്ഷകർത്താവുമായി പരിശോധിക്കുക സ്വാപ്പ് ചെയ്യുക തുടങ്ങിയവ ചെയ്യേണ്ടതുണ്ട് എന്നാൽ നല്ല കാര്യം നമ്മൾ ഒരിക്കലും ഒരു താഴേക്കുള്ള പാതയിലൂടെ നടക്കില്ല എന്നതാണ്മുകളിലേക്ക് മാത്രം നിങ്ങൾ മുകളിലേക്ക് നടക്കുന്ന ഘട്ടങ്ങളുടെ എണ്ണം ട്രീയുടെ ഉയരത്താൽ പരിമിതപ്പെടുത്തും ഇപ്പോൾ നമ്മൾ മുമ്പ് വാദിച്ചു അല്ലെങ്കിൽ നമ്മൾ സൂചിപ്പിച്ചു ഒരു ബാലൻസ്ഡ്ട്രീയുടെ ഉയരം ലോഗ് n ആണ് ലെവൽ i ലെ നോഡുകളുടെ എണ്ണം 2 പവർ i ആണെന്ന് പറയാം നമുക്ക് ഇത് ശരിയായി അളക്കാൻ കഴിയും തുടക്കത്തിൽ നമുക്ക് 1 നോഡ് 2പവർ 0 ഉണ്ട് തുടർന്ന് ആദ്യ ലെവലിൽ നമുക്ക് 2 നോഡുകൾ 2പവർ 1 രണ്ടാമത്തെ ലെവലിൽ നമുക്ക് 4 നോഡുകൾ 2 പവർ 2 ഉണ്ട് നമ്മൾ ഈ രീതിയിൽ ചെയ്താൽ k ലെവലുകൾ നിറയുമ്പോൾ നമുക്ക് 2പവർ k മൈനസ് 1 ഉണ്ടാകും ഇതിലൂടെ നമുക്ക് n നോഡുകൾ ഉണ്ടെങ്കിൽ ലെവലുകളുടെ എണ്ണം ലോഗ് n ആയിരിക്കുമെന്നും കണ്ടെത്താം ഇൻസെർട്ട് ചെയ്യുന്നത് ഒരു പാതയുടെ മുകളിലേക്ക് നടക്കുന്നു പാത ട്രീയുടെ ഉയരത്തിന് തുല്യമാണ് ട്രീയുടെ ഉയരം ലോഗ് n ആണ് അതിന്റെ സമയ ക്രമം ലോഗ് n ആയിരിക്കും ഒരു ഹീപ്പിൽ ൽ നമ്മൾ നടപ്പിലാക്കേണ്ട മറ്റൊരു പ്രവർത്തനം ഡിലീറ്റ് മാക്സ് ആണ് ഇപ്പോൾ ഒരു ഹീപ്പിന്റെ ഒരു കാര്യം പരമാവധി മൂല്യം റൂട്ടിൽ ആണ് കാരണം ഹീപ്പ് പ്രോപ്പർട്ടി ആണ് നിങ്ങൾക്ക് കാണാം നോഡിന്റെ മൂല്യം ചൈൽഡിന്റെ മൂല്യത്തേക്കാൾ കൂടുതൽ ആണ് അതുകൊണ്ടു പരമാവധി മൂല്യം റൂട്ടിൽ ആയിരിക്കണം റൂട്ട് എവിടെയാണെന്ന് നമുക്കറിയാം ഇപ്പോൾ നമ്മൾ അത് എങ്ങനെ കാര്യക്ഷമമായി നീക്കംചെയ്യും എന്നതാണ് ചോദ്യം നമ്മൾ ഈ നോഡ് നീക്കംചെയ്യുകയാണെങ്കിൽ ഒന്നാമതായി നമുക്ക് നോഡ് നീക്കംചെയ്യാൻ കഴിയില്ല കാരണം അത് ഒരു റൂട്ട് ആണ് നിങ്ങൾ ഈ മൂല്യം നീക്കംചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ കുറച്ച് മൂല്യം നൽകണം മറുവശത്ത് ഹീപ്പിലെ നോഡിലെ മൂല്യങ്ങളുടെ എണ്ണം ഇപ്പോൾ ചുരുങ്ങി ചുവടെ വലതുവശത്തുള്ള ഈ നോഡ് ഇല്ലാതാക്കണം കാരണം ഹീപ്പിന്റെ സ്ട്രക്ച്ചർ പരമായ പ്രോപ്പർട്ടി ആണിത് നമ്മൾ ട്രീ ഇടത്തുനിന്ന് വലത്തോട്ട് മുകളിൽ നിന്ന് താഴേക്ക് പൂരിപ്പിക്കണം എന്ന് പറയുന്നു നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്നു നമുക്ക് ഇവിടെ ഒരു മൂല്യമില്ല അവസാന നോഡ് നമ്മൾ ചേർത്തത് ചുവടെയുള്ള വരിയുടെ വലതുവശത്തുള്ള ഒന്നായിരുന്നു അത് പോകേണ്ടതുണ്ട് മുകളിൽ ഒരു മൂല്യമില്ല കൂടാതെ ചുവടെ 11 എന്ന മൂല്യമുണ്ട് അതിന്റെ നോഡ് ഇല്ലാതാക്കാൻ പോകുന്നു ഈ മൂല്യം 11 ലേക്ക് നീക്കി കാര്യങ്ങൾ ശരിയാക്കുക എന്നതാണ് ഇപ്പോൾ നമ്മുടെ തന്ത്രം നമ്മൾ ആദ്യം 33 റൂട്ടിൽ നിന്ന് നീക്കംചെയ്യുന്നു 11 അടങ്ങിയ നോഡ് നമ്മൾ നീക്കംചെയ്യുന്നു കൂടാതെ 11 നെ റൂട്ടിന്റെ സ്ഥാനത്തേക്ക് നീക്കുന്നു ഇപ്പോൾ ഇതിന്റെ പ്രശ്നം നമ്മൾ ഏതോ ഒരു മൂല്യം മുകളിലേക്ക് നീക്കി എന്നതാണ് വ്യക്തമായും അത് ഏറ്റവും വലുതല്ല അതിന്റെ കുട്ടികളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടാകും 11 എന്നത് 7 നെക്കാൾ വലുതാണ് ഇത് ശരിയാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഇത് 24 നേക്കാൾ ചെറുതാണ് പ്രോപ്പർട്ടി പുനസ്ഥാപിക്കാൻ നമ്മൾ ചെയ്യുന്നത് നമ്മൾ രണ്ട് ദിശകളും നോക്കുന്നു ഏറ്റവും വലിയ കുട്ടിയുമായി ഇത് കൈമാറുക ഇവിടെ ഇത് 17 ആണ് ഇത് നമ്മൾ 11മായി സ്വാപ്പ് ചെയ്തു ഇവിടെ 11 ഉം 24ഉം സ്വാപ്പ് ചെയ്തു രണ്ടും ശരിയല്ല എന്നാൽ ഈ ചെറിയ കുട്ടിയെ മുകളിലേക്ക് നീക്കുക അപ്പോൾ 17 24 നേക്കാൾ വലുതാകില്ല അങ്ങനെ നാം ഏറ്റവും വലുത് നീക്കും ഈ സാഹചര്യത്തിൽ നമ്മൾ 24 മുകളിലേക്ക് നീക്കുന്നു ഇപ്പോൾ നമുക്ക് 11 ഉണ്ട് ഇപ്പോൾ അതിന്റെ 2 കുട്ടികളുമായി നോക്കുമ്പോൾ ഇത് ശരിയാണോ എന്ന് വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട് വീണ്ടും അങ്ങനെയല്ല അതുകൊണ്ട് നമ്മൾ വലുത് അതായത് 12 മുകളിലേക്ക് നീക്കാം പിന്നീട് നാം കുട്ടികളുമായി നോക്കുമ്പോൾ ഇത് ശരിയാണോ എന്ന് വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട് ഈ സമയത്ത് 11 10 നേക്കാൾ വലുതായതിനാൽ നമ്മുടെ ഇവിടെ നിർത്താം ഇൻസെർട്ട് പുതിയ നോഡിൽ നിന്ന് റൂട്ട് വരെയുള്ള ഒരൊറ്റ പാത പിന്തുടരുന്ന പോലെ ഡിലീറ്റ് മാക്സ് റൂട്ട് മുതൽ ലീഫ് വരെ താഴോട്ടുള്ള ഒരൊറ്റ പാത പിന്തുടരും ഡിലീറ്റ് മാക്സിൻറെ വില വീണ്ടും ട്രീയുടെ ഉയരത്തിന് ആനുപാതികമായിരിക്കും അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലോഗ് എൻ ആണ് നമുക്ക് മറ്റൊരു ഡിലീറ്റ് ചെയ്യാം നമ്മൾ ഈ സാഹചര്യത്തിൽ 24 ഇല്ലാതാക്കുന്നു ഇപ്പോൾ നമ്മൾ 10 നുള്ള നോഡ് നീക്കംചെയ്യുന്നു 10 റൂട്ടിലേക്ക് പോകുന്നു നമ്മൾ 10 നെ അതിന്റെ 2 കുട്ടികളായ 12 7 എന്നിവയുമായി താരതമ്യപ്പെടുത്തുന്നു മാത്രമല്ല ഹീപ്പ് പ്രോപ്പർട്ടി തൃപ്തികരമല്ലെന്ന് കണ്ടെത്തുന്നു രണ്ടിലെയും വലുത് ആയ 12 നമ്മൾ മുകളിലേക്ക് നീക്കുന്നു ഇപ്പോൾ നമ്മൾ അതിന്റെ കുട്ടികളെ പുതിയ കുട്ടികളെ ഇവിടെ 11 ഉം 5 ഉം നോക്കുന്നു വീണ്ടും പ്രോപ്പർട്ടി തൃപ്തികരമല്ലെന്ന് നമ്മൾ കാണുന്നു വലുത് മുകളിലേക്ക് നീങ്ങുന്നു അത് ലീഫിൽ എത്തിക്കഴിഞ്ഞാൽ ഇനി തൃപ്തിപ്പെടേണ്ട പ്രൊപെർട്ടി ഒന്നുമില്ല നമ്മൾ നിർത്തുന്നു ഹീപ്പിന്റെ വളരെ ആകർഷകമായ ഒരു സവിശേഷത നമുക്ക് ഈ ട്രീ നേരിട്ട് ഒരു ലിസ്റ്റിലോ ഒരു അറേയിലോ നടപ്പിലാക്കാൻ കഴിയും എന്നതാണ് നമുക്ക് ഒരു n നോഡ് ഹീപ്പ് ഉണ്ട് നമുക്ക് അതിനെ ഒരു ലിസ്റ്റായി അല്ലെങ്കിൽ 0 മുതൽ n മൈനസ് 1 വരെയുള്ള സ്ഥാനങ്ങളുള്ള ഒരു അറേ ആയി പ്രതിനിധീകരിക്കാൻ കഴിയും സ്ഥാനം 0 ഒരു റൂട്ടിനെ പ്രതിനിധീകരിക്കുന്നു തുടർന്ന് 1 2 ക്രമത്തിൽ കുട്ടികളെ പ്രതിനിധീകരിക്കുന്നു തുടർന്ന് 3 4 5 6 7 നോഡുകൾ അടുത്ത ലെവലും മറ്റും ആണ് നമ്മൾ പറഞ്ഞതുപോലെ ഈ ഹീപ്പ് ഇടത്തു നിന്ന് വലത്തോട്ടും മുകളിൽ നിന്ന് താഴോട്ടും നിറച്ചു അതുപോലെ തന്നെ നോഡുകളും മുകളിൽ നിന്ന് താഴേക്കും ഇടത്തുനിന്ന് വലത്തോട്ടും നമ്മൾ അക്കമിടുന്നു നമ്മൾ റൂട്ടിൽ 0 തുടർന്ന് ഇടതുവശത്ത് 1 വലതുവശത്ത് 2 ഇട്ടു പിന്നീട് 3 4 5 6 7 8 9 10 എന്നിങ്ങനെ ആരംഭിക്കുന്നു ഇതിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും എനിക്ക് i എന്ന് ലേബൽ ചെയ്ത ഒരു സ്ഥാനം ഉണ്ടെങ്കിൽ രണ്ട് കുട്ടികളും 2 i പ്ലസ് 1 2 ഐ പ്ലസ് 2 എന്നിവ ആണ് 1 ന്റെ കുട്ടികൾ 2 ഇന്റു 1 പ്ലസ് 1അത് 3 ആണ് അടുത്തത് 2ഇന്റു 1 പ്ലസ് 2 ആണ് അതായത് 4 അതുപോലെ 5 ന്റെ കുട്ടികൾ 2 ഇന്റു 5 പ്ലസ് 1ആണ് ഇത് 11 ആണ് 2 ഇന്റു 5 പ്ലസ് 2 അത് 12 ആണ് ഹീപ്പിലെ ഒരു സ്ഥാനത്തിനായി ഇൻഡെക്സ് കണക്കുകൂട്ടലുകൾ നടത്തുന്നതിലൂടെ കുട്ടികൾ എവിടെയാണെന്ന് നമുക്ക് മനസിലാക്കാൻ കഴിയും കൂടാതെ ഈ കണക്കുകൂട്ടൽ പഴയപടിയാക്കുന്നതിലൂടെ രക്ഷകർത്താവിന്റെ സൂചിക കണ്ടെത്താനാകും j യുടെ രക്ഷകർത്താവ് j മൈനസ് 1 ബൈ 2 ആണ് ഇപ്പോൾ j മൈനസ് 1 ബൈ 2 ഒരു പൂർണ്ണസംഖ്യയായിരിക്കില്ല അതുകൊണ്ടു നമ്മൾ ഫ്ലോർ എടുക്കുന്നു ഉദാഹരണത്തിന് 11 എടുത്താൽ 11 മൈനസ് 1 10 ആണ് 10 ബൈ 25 ആണ് നമ്മൾ 14 എടുക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് 14 മൈനസ് 1 13 ഉം 13 ബൈ 2 6 5 ഉം ആണ് നമ്മൾ ഫ്ലോർ എടുക്കുകയും 6 നേടുകയും ചെയ്യുന്നു ഇൻഡക്സ് അരിതമേറ്റിക് ചെയ്തുകൊണ്ട് പാരന്റ് മോഡും ചൈൽഡ് നോഡും കൈകാര്യം ചെയ്യാൻ നമ്മളെ അനുവദിക്കുന്നു നമ്മൾ ഐ യിൽ നിന്നും 2 i പ്ലസ് 12 i പ്ലസ് 2 ചെയ്തു ചിൽഡ്രൻ എത്തുന്നു നമ്മൾ j മൈനസ് 1 ബൈ 2 പോയി ഫ്ലോർ എടുത്തു പാരന്റ് എത്തുന്നു എങ്ങനെയാണ് നമ്മൾ ഒരു ഹീപ്പ് നിർമ്മിക്കുന്നത് ഒരു ഹീപ്പ് നിർമ്മിക്കാനുള്ള എളുപ്പമുള്ള മാർഗ്ഗം മൂല്യങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്തു അവ ഓരോന്നായി ഹീപ്പ് ഓപ്പറേഷൻ ഉപയോഗിച്ച് ഹീപ്പിലേക്ക് ഇൻസെർട്ട് ചെയ്യുക എന്നതാണ് അതിനാൽ നമ്മൾ ഒരു ശൂന്യമായ ഹീപ്പിൽ ആരംഭിക്കുന്നു നമ്മൾ x 1 ചേർക്കുന്നു x 1 അടങ്ങിയ ഒരു പുതിയ ഹീപ്പ് സൃഷ്ടിക്കുന്നു നമ്മൾ x2 ചേർക്കുന്നു x 1 x 2 ഉള്ള ഒരു ഹീപ്പ് സൃഷ്ടിക്കുന്നു ഓരോ പ്രവർത്തനവും തീർച്ചയായും ലോഗ് n സമയം എടുക്കും n വളരുകയാണ് പക്ഷേ അവസാന n നെ അതിർത്തിയായി കണക്കാക്കുന്നത് ഒരു പ്രശ്നമല്ല നമ്മൾ n തവണ ചേർക്കുന്നു കൂടാതെ ലോഗ് n സമയത്തിൽ നമുക്ക് ഈ ഹീപ്പ് നിർമ്മിക്കാൻ കഴിയും നമുക്ക് x 1 മുതൽ xn വരെ അറേ ഉണ്ടെങ്കിൽ ഈ ഹീപ്പ് നിർമ്മാണത്തിന് ഒരു മികച്ച മാർഗമുണ്ട് നോഡുകളുടെ അവസാന പകുതി ട്രീയുടെ ലീഫ് ആണ് ഇപ്പോൾ ഒരു ലീഫ് നോഡിന് കുട്ടികളില്ലാത്തതിനാൽ പ്രോപ്പർട്ടി ഒന്നുമില്ല ലീഫിനെ അതുപോലെ തന്നെ നിലനിർത്തുക ഒന്നും നമ്മൾ ചെയ്യേണ്ടതില്ല നമ്മൾ ഒരു ലെവലിനു മുകളിലേക്ക് പോകുന്നു തുടർന്ന് ഹീപ്പിലെ എല്ലാ പിശകുകളും ആ ലെവലിൽ പരിഹരിക്കാൻ കഴിയും തുടർന്ന് വീണ്ടും ഒരു ലെവൽ മുകളിലേക്കു പോകുന്നു ഇത് തുടരുന്നു നമ്മൾ ഹീപ്പ് പണിയുമ്പോൾ ഡിലീറ്റ് മാക്സ് ഉപയോഗിച്ച് നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഹീപ്പ് ശരിയാക്കുന്നു നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ പിശക് പ്രചരിപ്പിക്കേണ്ട ഘട്ടങ്ങളുടെ എണ്ണം കൂടുതൽ ഉയർന്നതായിത്തീരുന്നു കാരണം ഒരു ഉയർന്ന പോയിന്റിൽ നിന്ന് ആരംഭിക്കേണ്ടതുണ്ട് മറുവശത്ത് ഇത് സംഭവിക്കുന്ന നോഡുകളുടെ എണ്ണം ചെറുതാണ് നമുക്ക് ഇത് ഇവിടെ നോക്കാം നമ്മൾ പറയുന്നത് 0 മുതൽ 14 വരെയുള്ള യഥാർത്ഥ ലിസ്റ്റിൽ നിന്നാണ് ആരംഭിക്കുന്നതെങ്കിൽ 7 മുതൽ 14 വരെയുള്ള സംഖ്യകൾ ഇതിനകം തന്നെ ഹീപ്പ് പ്രോപ്പർട്ടി തൃപ്തിപ്പെടുത്തുന്നു എന്ത് മൂല്യം വന്നാലും അവിടെ നമ്മൾ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ മുകളിൽ പോയി ഇവിടെ നമ്മൾ ചിൽഡ്രൻ ആയിട്ടു സ്വാപ്പ് ചെയ്യേണ്ടി വരാം ഇവിടെയും സ്വാപ്പ് ചെയ്യും അത് തുടരും 4 നോഡുകൾക്കായി ഒരുപക്ഷേ ഹീപ്പ് പ്രോപ്പർട്ടി നന്നാക്കാൻ നമ്മൾ ഒരു ലെവൽ ഷിഫ്റ്റിംഗ് ചെയ്യേണ്ടതുണ്ട് നമ്മൾ ഇപ്പോൾ മുകളിലേക്ക് പോകുന്നു 1 ഉം 2 ഉം യഥാർത്ഥ മൂല്യങ്ങളാണ് അവ തെറ്റായിരിക്കാം വീണ്ടും നമുക്ക് ഇത് താഴേക്ക് മാറ്റുകയും വീണ്ടും മറ്റൊരു മൂല്യത്തിലേക്ക് മാറ്റുകയും ചെയ്യാം ഇപ്പോൾ നമുക്ക് രണ്ട് ലെവൽ ഷിഫ്റ്റിംഗ് ആവശ്യമാണ് പക്ഷേ ഇതിന് രണ്ട് നോഡുകൾ മാത്രമേ ഉള്ളൂ ഇതിനു വേണ്ട നോഡുകളുടെ എണ്ണം പകുതി ആയി കുറഞ്ഞു എന്നാൽ ചെയ്യേണ്ട നടപടികളുടെ എണ്ണം അത് ഒന്ന് വീതം കൂടി നാം ഇവിടെ ഒരു സൂക്ഷ്മമായ കണക്കുകൂട്ടൽ ചെയ്യില്ല പക്ഷെ ഇതിന്റെ ഫലമായി ഒരു സമയം ഒഴിഞ്ഞ ഹീപ്പിലേക്ക് ചേർക്കുന്നതിന് പകരം ഹീപ്പിന്റെ അടിയിൽ നിന്ന് ആരംഭിച്ച് മുകളിലേക്ക് പോകുമ്പോൾ ഹീപ്പ് ചെയ്യുന്നതിനുള്ള സമയം യഥാർത്ഥത്തിൽ ലീനിയർ ഓർഡർ n ആണ് ഹീപ്പിന്റെ അന്തിമ ഉപയോഗം യഥാർത്ഥത്തിൽ ക്രമീകരിക്കുക എന്നതാണ് പരമാവധി മൂല്യത്തിൽ നിന്ന് ആരംഭിച്ച് നമ്മൾ ആ ഘടകം പുറത്തെടുക്കുന്നു അത് സ്വാഭാവികമാണ് നമ്മൾ ഒരു ലിസ്റ്റ് ഉപയോഗിച്ച് ആരംഭിക്കുക ഹീപ്പ് പണിയുക തുടർന്ന് n ടൈംസ് ഡിലീറ്റ് ചെയ്യുക അപ്പോൾ അവരോഹണ ക്രമത്തിൽ മൂല്യങ്ങളുടെ ലിസ്റ്റ് ലഭിക്കും n സമയം കൊണ്ടു നമ്മൾ ഒരു ഹീപ്പ് നിർമ്മിക്കുന്നു n ടൈംസ് ഡിലീറ്റ് മാക്സ് ചെയ്യുന്നു അവരോഹണ ക്രമത്തിൽ ഘടകങ്ങൾ എക്സ്ട്രാക്റ്റുചെയ്യുക ഹീപ്പിനായി നമുക്ക് ഒരു n ലോഗ് n അൽഗോരിതം ലഭിക്കും ഇപ്പോൾ ഈ മൂല്യങ്ങൾ എവിടെ സൂക്ഷിക്കും എന്നതാണ് ചോദ്യം ശരി ഒരു ഹീപ്പ് ഒരു അറേ ആണെന്ന് ഓർമ്മിക്കുക തുടക്കത്തിൽ നമുക്ക് n ഘടകങ്ങളുള്ള ഒരു ഹീപ്പ് ഉണ്ട് അതുകൊണ്ട് ഈ ഹീപ്പ് പണിയും ഇപ്പോൾ നമ്മൾ ഡിലീറ്റ് മാക്സ് ചെയ്യും അത് മുകളിലുള്ള ഘടകം നീക്കും കാരണം മുകളിൽ റൂട്ട് ആണ് അത് ഇവിടെ ഒരു ഒഴിവ് സൃഷ്ടിക്കും ഈ മുകളിൽ പോകുമെന്ന് പറഞ്ഞ മൂല്യം ഇത് ആണ് ഡിലീറ്റ് മാക്സ് ചെയ്യുമ്പോൾ മുകളിലേക്ക് പോകുന്ന അവസാനത്തെ ലീഫ് ഇതാണ് ഇവിടെ ഒരു ഒഴിവുള്ളതിനാൽ നമുക്ക് ഇത് യഥാർത്ഥത്തിൽ ഈ സ്ഥാനത്തേക്ക് മാറ്റാൻ കഴിയും പരമാവധി മൂല്യം ഇപ്പോൾ ഹീപ്പിന്റെ അവസാനത്തിലേക്ക് പോകും എന്നാൽ അടുത്ത തവണ നമ്മൾ ഹീപ്പ് പ്രോസസ്സ് ചെയ്യുമ്പോൾ n മൈനസ് 1 മൂല്യങ്ങൾ മാത്രമേ ഉണ്ടാകൂ നമ്മൾ മൂല്യത്തിലേക്ക് നോക്കില്ല 0 മുതൽ n മൈനസ് 2 വരെ എടുക്കും വീണ്ടും ഈ മൂല്യം ഇവിടെ വരും ഈ മൂല്യം അവിടെ പോകും ഇപ്പോൾ നമുക്ക് രണ്ട് ഘടകങ്ങൾ ശരിയാകും ഓരോന്നായി പരമാവധി മൂല്യം രണ്ടാമത്തെ പരമാവധി മൂല്യം തുടങ്ങിയവ നമ്മൾ ഹീപ്പ് സംഭരിക്കുന്ന അതേ ലിസ്റ്റിലേക്കോ അറേയിലേക്കോ പ്രവേശിക്കും ഒടുവിൽ ഹീപ്പ് ആരോഹണ ക്രമത്തിൽ ആകും ഇത് യഥാർത്ഥത്തിൽ ഒരു n ലോഗ് n സോർട്ടിംഗ് ആണ് ഇതിന് മുമ്പ് നമ്മൾ കണ്ട മെർജ് സോർട്ട് പോലെ ഇതിനും അസിംപ്റ്റോട്ടിക് സങ്കീർണ്ണതയുണ്ട് എന്നാൽ മെർജ് സോർട്ട് പോലെ ഓരോ തവണയും നമ്മൾ രണ്ട് ലിസ്റ്റുകൾ ലയിപ്പിക്കുമ്പോഴെല്ലാം ഒരു പുതിയ അറേ സൃഷ്ടിക്കാൻ പ്രേരിപ്പിക്കുന്നതുപോലെയല്ല ഇത് ഇവിടെ ഇത് യഥാർത്ഥത്തിൽ ഒരു ലിസ്റ്റ് സൃഷ്ടിക്കുന്നു ഹീപ്പ് എന്നാൽ പ്രയോറിറ്റി ക്യൂകളുടെ ഒരു ട്രീ അധിഷ്ഠിത നടപ്പാക്കലാണ് അതിൽ ഇൻസെർട്ടും ഡിലീറ്റ് മാക്സും ലോഗ് എൻ സമയത്ത് ചെയ്യാനാകും നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് n ടൈം കൊണ്ട് ക്രമത്തിൽ ഒരു ഹീപ്പ് പണിയാൻ കഴിയും ഇവ ട്രീ ആണ് പക്ഷേ അവ ഒരു അറേ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും ഇപ്പോൾ ഈ കേസിൽ നമ്മൾ മാക്സ് ഹീപ് ചെയ്തു ഓരോ ഘടകവും അതിന്റെ കുട്ടികളേക്കാൾ ചെറുതായിരിക്കണം എന്ന വിധത്തിൽ ഹീപ്പ് അവസ്ഥ മാറ്റുന്ന ഒരു ഇരട്ട നിർമ്മാണം നടത്താനും നമുക്ക് കഴിയും ഈ സാഹചര്യത്തിൽ നമുക്ക് ഒരു മിനി ഹീപ്പ് ഉപയോഗിക്കാം തുടർന്ന് ഡിലീറ്റ് മാക്സ് എന്നതിനുപകരം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം ഡിലീറ്റ് മിനിമം ആകും എല്ലാം കൃത്യമായി ആദ്യത്തെ കേസ് പോലെയാണ് നമ്മൾ എന്തെങ്കിലും മുകളിലേക്ക് നീക്കുമ്പോൾ അത് മിനിമത്തിന്റെ അവസ്ഥയനുസരിച്ച് താഴേക്ക് നീക്കണം കൂടാതെ ചുവടെ എന്തെങ്കിലും ഉൾപ്പെടുത്തുമ്പോൾ അത് മുകളിലേക്ക് നീക്കണം ഇപ്പോൾ ഇൻസേർട്ട് ഡിലീറ്റ് മിനിമം എന്നത് ഇൻസേർട്ട് ഡിലീറ്റ് മാക്സ് പോലെയുള്ള പ്രവൃത്തിമാത്രമാണ് താരതമ്യം ചെയ്യുന്നത് എന്ന് വിപരീതമാകും എന്ന് മാത്രം കാരണം നമ്മൾ ഇപ്പോൾ മാക്സിമത്തിനു പകരം മിനിമം ആണ് എടുക്കുക ഒടുവിൽ നമ്മൾ ഒരു ഹീപ്പ് ഉപയോഗിച്ച് സോർട്ടിങ് ചെയ്യാൻ n ലോഗ് സമയം എടുക്കും